തിരികെ സ്വാഗതം ഇത് മുപ്പത്തിയൊന്നാം നമ്പർ ലക്ച്ചർ ആണ് ഇന്ന് നമ്മൾ വീണ്ടും ഡബ്ൾ ഇന്റഗ്രലുകളുമായി തുടരും പക്ഷേ അവയുടെ പോളാർ ഫോം ആയിരിക്കും പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യുന്നത് പോളാർ ഫോമുകളിലെ ഡബ്ൾ ഇന്റഗ്രലുകൾ വളരെ ഉപയോഗപ്രദമാണ് കൂടാതെ ഇന്റഗ്രൻഡും അനുബന്ധ ലിമിറ്റുകളും പോളാർ ഫോമുകളിലേക്ക് മാറ്റിയാൽ ഇന്റഗ്രൽ വിലയിരുത്താൻ വളരെ എളുപ്പമാകും എന്നത് നമ്മൾ നിരവധി ഉദാഹരണങ്ങളുടെ സഹായത്തോടെ കാണും പോളാർ ഫോമിനായി നമ്മൾ പരിഗണിക്കുന്ന സാഹചര്യങ്ങളിൽ ഡൊമെയ്ൻ പോളാർ ഫോമിൽ വിവരിക്കാൻ കഴിയും ഉദാഹരണത്തിന് സർക്കുലർ ഡൊമെയ്ൻ അല്ലെങ്കിൽ എന്നീ വേരിയബിൾകളുടെ അടിസ്ഥാനത്തിൽ ബൌണ്ടറി നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റേതെങ്കിലും ഡൊമെയ്ൻ അത്തരം സന്ദർഭങ്ങളിൽ ഇന്റഗ്രലിനെ പോളാർ ഫോമിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് എളുപ്പത്തിൽ ചിന്തിക്കാനാകും ഇന്റഗ്രലിൽ രൂപത്തിൽ കാണുകയാണെങ്കിൽ കാർട്ടീഷ്യനിൽ നിന്നും പോളാർ ഫോമിലേക്ക് മാറ്റുന്നതിനുള്ള റിലേഷൻ എന്ന് നമുക്കറിയാമെന്നതിനാൽ എന്നായി മാറുന്നു അതിനാൽ ഇത് പല കേസുകളിലും ലളിതമാക്കുന്നു ഒരു ഇന്റഗ്രലിലെ ഇന്റഗ്രന്റ്നെയും അതുപോലെ ഇന്റഗ്രേഷന്റെ ഡൊമെയ്നിനെയും അടിസ്ഥാനമാക്കി പോളാർ ഫോമിലേക്ക് പോകുന്നത് നല്ലതാണോ എന്ന് നമ്മൾ തീരുമാനിക്കും നമുക്ക് ഇവിടെ എന്നീ രണ്ടു കർവുകളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഡൊമെയ്ൻ ഉണ്ടെന്ന് കരുതുക നമ്മൾ പോളാർ കോർഡിനേറ്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒറിജിനിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം r ആയിരിക്കും എക്സ് ആക്സിസിൽ നിന്നുള്ള കോൺ ആയിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ഡൊമെയ്ൻ ഇവിടെ എന്നീ രണ്ട് കർവുകളാൽ പരിമിതപ്പെടുമ്പോൾ പോളാർ കോർഡിനേറ്റുകളുടെ സഹായത്തോടെ എളുപ്പത്തിൽ ഇന്റഗ്രേഷൻ നടത്താൻ കഴിയും ഈ ഡൊമെയ്നിന്റെ ലിമിറ്റുകൾ വിലയിരുത്തുന്നതിന് ഇവിടെ എളുപ്പമാണ് കാരണം ഇവിടെ r ന്റെ ദിശയിൽ ൽ വെച്ച് ഡൊമെയ്നിൽ പ്രവേശിക്കുകയും അത് ൽ നിന്ന് ഡൊമെയ്ൻ വിടുകയും ചെയ്യുന്നു ആംഗിൾ യുടെ കേസിൽ അത് ആൽഫ ആംഗിളിൽ നിന്ന് ബീറ്റാ ആംഗിൾ വരെ പോകുന്നു അതിനാൽ പോളാർ കോർഡിനേറ്റ്സിന്റെ സഹായത്തോടെ നമുക്ക് ഡൊമെയ്ൻ എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും പക്ഷേ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിൽ വിവരിക്കുകയാണെങ്കിൽ ഈ ഡൊമെയ്ൻ കവർ ചെയ്യുന്നതിന് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരും കാരണം അതിൻറെ കർവുകൾ എന്നിങ്ങനെ നന്നായി വിവരിക്കുന്നു ഈ പോളാർ കോർഡിനേറ്റുകൾ ഉള്ളപ്പോൾ ഇന്റഗ്രൽൻറെ രൂപം എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം ഡൊമെയ്നെ കാർട്ടീഷ്യനിലെ എന്ന പോലെ ചെറിയ സെല്ലുകളായി വീണ്ടും ഡിസ്ക്രീടൈസ് ചെയ്യുന്നുവെന്ന് കരുതുക ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ സെല്ല് പരിഗണിക്കുന്നു ഈ സെല്ലിന് ഒറിജിനൽ നിന്ന് എന്ന കർവിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ദൂരം ഉണ്ട് അതിനെ എന്ന്എടുക്കുന്നു തുടർന്ന് ലേക്ക് എന്ന ഇൻഗ്രിമെൻറ് എടുത്തു എന്ന മറ്റൊരു ദൂരം എടുക്കുന്നു ഇതിൽ നിന്നും എന്ന് എഴുതാം ഇത് കാർട്ടീഷ്യൻ കേസിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമാണ് നമ്മൾ കാർട്ടീഷ്യൻൽ ഇതേ കാര്യം ചെയ്യുമ്പോൾ ഇൻഗ്രിമെൻറ്കൾ ദിശയിൽ എന്നും ദിശയിൽ എന്നും റീജിയന്റെ ഏരിയ ഈ സാഹചര്യത്തിൽ നമ്മൾ സർക്കുലർ റീജിയൻറെ പോളാർ കോർഡിനേറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഡൊമെയ്നിലെ റീജിയൻറെ ഏരിയ ഇവിടെ എന്നായിരിക്കും കാർട്ടീഷ്യൻ കോർഡിനേറ്റിലായിരിക്കുമ്പോൾ ഇത് x ന്റെ ദിശയിലും y ന്റെ ദിശയിലും നമ്മൾവരുത്തിയ ഇൻക്രിമെന്റുകളുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ എന്ന ഒരു അധിക ഘടകം പ്രത്യക്ഷപ്പെട്ടു പോളാർ ഫോമിൽ വിവരിച്ചിരിക്കുന്ന ഈ ഡൊമെയ്നിലുള്ള ഇന്റഗ്രൽ ഇവിടെ നിർവചിക്കാം നമുക്ക് ഒരു ഫംഗ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ റീജിയന്ന് ഇടയിൽ വരുന്ന എന്ന ഒരു പോയിന്റിൽ ആ ഫംഗ്ഷൻറെ മൂല്യം കണക്കുകൂട്ടും ഇവിടെ കണക്കുകൂട്ടി ശേഷം കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും കാർട്ടീഷ്യനിൽ ഉള്ളതുപോലെ അത്തരത്തിലുള്ളവയുടെ തുകയായ യിൽ ലിമിറ്റ് എടുത്തു എന്ന ഇന്റഗ്രൽ ഫോമിൽ എഴുതുന്നു ഈ ഡൊമെയ്നിനായി നാം ലിമിറ്റുകൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാൽ ഇവ പോളാർ ഫോമിലാണ് നൽകിയിരിക്കുന്നത് r ൻറെ ലിമിറ്റുകൾ കാണുന്നത് വളരെ എളുപ്പമാണ് r ന്റെ ദിശയിൽ ൽ വെച്ച് ഡൊമെയ്നിൽ പ്രവേശിക്കുകയും അത് ൽ നിന്ന് ഡൊമെയ്ൻ വിടുകയും ചെയ്യുന്നു യുടെ കേസിൽ അത് ആംഗിളിൽ നിന്ന് ആംഗിൾ വരെ പോകുന്നു അതിനാൽ ന്റെ ലിമിറ്റുകൾ എന്നിവയും യുടെ ലിമിറ്റുകൾ എന്നിവയും ആയിരിക്കും പോളാർ കോർഡിനേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ r എന്ന ഫാക്ടർ അധികമായി വന്നിട്ടുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം കാർട്ടീഷ്യൻൽ നമ്മൾ ലളിതമായി dxdy ഉപയോഗിക്കുന്നു ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഉണ്ട് അത് r θ എന്ന കോർഡിനേറ്റിൽ വിലയിരുത്തപ്പെടും അതോടൊപ്പം അധിക ഘടകം r ഉം തുടർന്ന് dr dθ ഉം ഉണ്ടായിരിക്കും റീജിയൻ കവർ ചെയ്യുന്നതിന് യുടെയും ൻറെയും റേഞ്ചുകളെ പരിഗണിക്കേണ്ടതുണ്ട് കാർട്ടീഷ്യൻ ഇന്റഗ്രലിനെ പോളാർ കോർഡിനേറ്റിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ ഇവിടെ കാണുന്നു പോളാർ കോർഡിനേറ്റിൽ ഇന്റഗ്രൽ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് അതിനാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ എന്ന ചില റീജിയനിൽ നൽകിയിട്ടുണ്ട് എന്ന് കരുതുക ഇതിനെ പോളാർ ഫോമിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ എന്തുചെയ്യും നമ്മൾ എന്നും എന്നും റിപ്ലേസ് ചെയ്യും dx dy യെ r dr dθ ഉപയോഗിച്ച് റിപ്ലേസ് ചെയ്യും തുടർന്ന് എന്നിവയ്ക്കു അനുസരിച്ച് റീജിയൻ നെ മുഴുവനായി കവർ ചെയ്യുന്ന ലിമിറ്റ്കൾ നൽകണം അതിനാൽ ഇവിടെ കാരണം ഇതിന്റെ വിസ്തീർണ്ണം പോളാർ കോർഡിനേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ട ചെറിയ റീജിയൻ ആണ് അത് r dr dθ ആയി വരുന്നു കാർട്ടീഷ്യന്റെ കേസിൽ ഇത് dx dy ആയിരുന്നു അതിനാൽ ഇത് വീണ്ടും പ്രാധാന്യമർഹിക്കുന്ന ഘട്ടങ്ങളാണ് നമ്മൾ എന്നിവ ഇന്റഗ്രലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു dx dy യെ r dr dθ ഉപയോഗിച്ച് മാറ്റിയെഴുതുന്നു ഈ എന്നത് അടിസ്ഥാനപരമായി അതേ റീജിയൻ ആണ് പക്ഷേ ഇപ്പോൾ ഇത് പോളാർ കോർഡിനേറ്റുകളുടെ അടിസ്ഥാനത്തിൽ വിവരിച്ചിരിക്കുന്നു പോളാർ ഫോമിൽ ഇന്റഗ്രലുകളെ എങ്ങനെ വിലയിരുത്താമെന്ന് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നോക്കുന്നു ആരം ഉള്ള ഒരു വൃത്തത്തിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ കണക്കുകൂട്ടുന്ന വളരെ ലളിതമായ ഒരു ഉദാഹരണം ഉപയോഗിച്ച് ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ആരം ആയിട്ടുള്ള ഒരു വൃത്തമുണ്ട് ഏരിയ കണക്കുകൂട്ടുന്നതിനായി ഫംഗ്ഷൻ 1 ആണെന്ന് കരുതേണ്ടതാണ് തുടർന്ന് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളിൽ ചെയ്തതുപോലെ എന്നതിൽനിന്ന് ഏരിയ ലഭിക്കും ഇവിടെ സർക്കിളിന്റെ റീജിയൻ θ 0 മുതൽ വരെ ആണ് നൽകിയിരിക്കുന്നത് കാരണം ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതിനാൽ ലിമിറ്റ്കൾ എടുക്കുന്നു ആദ്യം θ യുടെ ലിമിറ്റ് θ 0 മുതൽ വരെ റീജിയൻ തുടങ്ങുന്ന ലൈനിൽ യും അവസാനിക്കുന്നിടത്ത് ഉം ആണ് എന്നത് 0 ൽ നിന്ന് തുടങ്ങി എന്ന സർക്കിൾ വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ r ന്റെ ലിമിറ്റ് 0 മുതൽ സർക്കിൾ വരെ ആയിരിക്കും 0 മുതൽ വരെയുമായിരിക്കും അതിനാൽ എന്ന ഇന്റഗ്രലിനെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ആദ്യം അടിസ്ഥാനമാക്കി ഇൻന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് ആയതിനാൽ എന്ന് ലഭിക്കുന്നു അതിനുശേഷം ഇൻദഗ്രേറ്റ് ചെയ്യുമ്പോൾ ബാഹ്യ ഇന്റഗ്രലിൽ നിന്ന് എന്ന് നമുക്ക് ലഭിക്കും അങ്ങനെ നമുക്ക് എന്നു ലഭിക്കും അതാണ് സർക്കുലർ റീജിയൻറെ ഫസ്റ്റ് ക്വാഡ്രൻറ്ലെ ഏരിയ ഇവിടെ പോളാർ ഫോമിന്റെ സഹായത്തോടെ അഥവാ പോളാർ ഫോമിലുള്ള ഇന്റഗ്രലിലൂടെ നമ്മൾ എളുപ്പത്തിൽ വിലയിരുത്തി എന്നാൽ കാർട്ടീഷ്യൻ ഫോമിലാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് സങ്കീർണ്ണമായിരിക്കും കാരണം നമുക്ക് x y എന്നിവയുടെ ലിമിറ്റ്കൾ എടുക്കേണ്ടതുണ്ട് അതിൽ കാർട്ടീഷ്യൻ ഫോമിൽ സർക്കിൾ അടങ്ങിയിരിക്കും പോളാർ ഫോമിലുള്ള വൃത്തത്തിന്റെ സമവാക്യം ലളിതമായി r a ആണ് ഈ റീജിയൻ മുഴുവനായി ആയി കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ r 0 മുതൽ r a ലേക്ക് പോകുന്നു പക്ഷേ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇത് ആയിരിക്കും അതിനാൽ ആദ്യം x ൻറെ ലിമിറ്റ് അല്ലെങ്കിൽ y യുടെ ലിമിറ്റ് കണക്കാക്കേണ്ടതുണ്ട് അതനുസരിച്ച് നമുക്ക് എന്നിവ ലഭിക്കേണ്ടതുണ്ട് അതിനാൽ ഇന്റഗ്രൽ അല്പം സങ്കീർണ്ണമാക്കും അടുത്ത പ്രോബ്ലത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്ന ഇന്റഗ്രൽ ഇവാല്യുവേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ R എന്നത് x ആക്സിസ്സും എന്ന കർവും ബൌണ്ടറി ആയിട്ടുള്ള സെമി സർക്കുലർ റീജിയൻ ആണ് അതിനാൽ ഈ കർവ് അല്ലാതെ മറ്റൊന്നുമല്ല അതായത് ഈ അതിനാൽ നമ്മൾക്ക് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് തുടർന്ന് എക്സ് ആക്സിസും നമ്മൾ സംസാരിക്കുന്നത് സെമി സർക്കുലർ റീജിയനെ കുറിച്ചാണ് അതിനാൽ x ആക്സിസും സർക്കിളിന്റെ മുകൾ ഭാഗവും കൊണ്ട് ബൌണ്ടഡ് ആയിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ റീജിയൻ വരച്ചാൽ ആരം 1 ആയിട്ടുള്ള പകുതി വൃത്തമായിരിക്കും തുടർന്ന് ഞങ്ങൾക്ക് ഇവിടെ x ആക്സിസ് ഉണ്ട് അതിനാൽ ഈ റീജിയനിൽ നമുക്ക് ഇൻറഗ്രേറ്റ് ചെയ്യാം ഇവിടെ സർക്കുലർ റീജിയൻ ഉള്ളതിനാൽ പോളാർ കോർഡിനേറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ സൌകര്യപ്രദമാണ് രണ്ടാമതായി ഇവിടെ നമ്മുടെ ഇന്റഗ്രന്റിൽ പോലുള്ള പദം ഉണ്ട് അതിനാൽ പോളാർ ഫോമിൽ ഇന്റഗ്രൽ വിലയിരുത്തുന്നത് എളുപ്പമാക്കുന്നു അതിനാൽ ആദ്യം ഇന്റഗ്രന്റിനെ പോളാർ ഫോമിൽ എഴുതുകയാണെങ്കിൽ and എന്നിവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതിൽനിന്ന് ലഭിക്കുന്നു

അതിനാൽ പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഇന്റഗ്രൽ വിലയിരുത്തുന്നത് വളരെ ലളിതമാണ് നമുക്ക് ഇവിടെ മറ്റൊരു പ്രോബ്ലം എടുക്കാം പ്രോബ്ലംനമ്പർ 2 അത് നമുക്ക് വീണ്ടും കുറച്ച് വ്യക്തത നൽകും ഇവിടെ എന്ന കാർഡിയോയിഡിനുള്ളിലും എന്ന സർക്കിളിന് പുറത്തുമായി വരുന്ന റീജിയൻറെ ഏരിയ കണക്കാക്കുക അതിനാൽ ഇവിടെ റേഡിയസ് രണ്ടും സെൻറർ പൂജ്യത്തിലും ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട് അതോടൊപ്പം എന്ന കാർഡിയോയിഡുമുണ്ട് അതിനാൽ പതിവുപോലെ ആദ്യം നമ്മൾ റീജിയൻ വരയ്ക്കണം ഈ സാഹചര്യത്തിൽ നമുക്ക് കാർഡിയോയിഡ് ഉണ്ട് തുടർന്ന് നമുക്ക് ഇവിടെ ആരം 2 ആയിട്ടുള്ള സർക്കിൾ ഉണ്ട് ഇവിടെ ചോദിക്കുന്നത് കാർഡിയോയിഡിനുള്ളിലും സർക്കിളിന് പുറത്തുമുള്ള ഈ റീജിയൻ ആണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണ് സ്വാഭാവികമായും ഞങ്ങൾ പോളാർ കോർഡിനേറ്റുകൾ ഉപയോഗിക്കും കാരണം ഇത് വളരെ എളുപ്പമാണ് തന്നിരിക്കുന്ന റീജിയൻറെ ഏരിയ എന്ന് എഴുതാം അതായത് അടുത്ത പ്രോബ്ലത്തിലേക്ക് വരുന്നു പ്രോബ്ലം നമ്പർ 3 പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് എന്ന സർക്കിൾ എന്ന ലൈനിൻറെ മുകൾ ഭാഗം എന്ന ലൈനിൻറെ താഴ്ഭാഗം എന്നിവ ഉൾക്കൊള്ളുന്ന പ്ലെയ്ൻനിലെ R എന്ന റീജിയൻറെ ഏരിയ കണ്ടെത്തുക ഇവിടെ നമുക്ക് എന്നീ രണ്ട് ലൈനുകളും തുടർന്ന് എന്ന സർക്കിളും ഉണ്ട് ഈ രണ്ടു ലൈനുകൾകിടയിലും സർക്കിളിനകത്തും ഉൾക്കൊള്ളുന്നതാണ് പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഏരിയ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന റീജിയൻ ഈ സാഹചര്യത്തിൽ നും യ്ക്കും ലിമിറ്റ്കൾ കാണേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ഒറിജിനൽ നിന്നും റീജിയൻ ന്റെ ദിശയിലേക്ക് നീങ്ങുന്നു എന്ന ലൈനിൽ വെച്ച് ൽ പ്രവേശിക്കുന്നു അവിടെ എന്നതിൽനിന്ന് എന്ന ലോവർ ലിമിറ്റ് ലഭിക്കുന്നു സർക്കിളിൽ വെച്ച് റീജിയൻ വിടുമ്പോൾ എന്ന അപ്പർ ലിമിറ്റ് ലഭിക്കുന്നു യുടെ ലിമിറ്റ്കൾ കിട്ടാനായി തന്നിരിക്കുന്ന ലൈനുകൾ സർക്കിളുമായി ഇൻറർസെക്ടറ്റ് ചെയ്യുന്ന പോയിന്റുകൾ കണക്കാക്കേണ്ടതുണ്ട് എന്നത് ൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും അനുബന്ധമായി താഴെയുള്ള പോയിൻറ് എന്നും ആയി ലഭിക്കും എന്നത് ൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും അനുബന്ധമായി മുകളിലുള്ള പോയിൻറ് എന്നും ആയി ലഭിക്കും ഇപ്പോൾ നമുക്ക് എന്ന പോയിൻറ്ലേക്ക്ഉള്ള ആംഗിൾ എളുപ്പത്തിൽ കണക്കുകൂട്ടാം കാരണം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 1 ഉം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് യും ആണ് അതിൽനിന്ന് അതായത് എന്നു ലഭിക്കുന്നു അതുപോലെ നമുക്ക് എന്ന പോയിൻറ്ലേക്ക്ഉള്ള ആംഗിൾ എന്നും ലഭിക്കുന്നു അങ്ങനെ എന്നു കിട്ടുന്നു റീജിയൻ വരയ്ക്കുകയും ഇന്റഗ്രേഷന്റെ ലിമിറ്റ്കൾ നിർണ്ണയിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ പ്രധാനം അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങുന്നു മുകളിൽ എന്ന പാരബോളോയിഡിനാലും താഴെ യൂണിറ്റ് സർക്കിൾ നാലും ബൌണ്ടഡ് ആയിട്ടുള്ള സോളിഡ് റീജിയൻറെ വോളിയം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് യൂണിറ്റ് സർക്കിളിന് മുകളിൽ പാരബോളോയിഡിന്റെ വോളിയം കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ നമുക്ക് യൂണിറ്റ് സർക്കിൾ ഉണ്ട് അതിനാൽ എളുപ്പത്തിൽ റീജിയൻറെ ലിമിറ്റുകൾ കണ്ടുപിടിക്കാം യൂണിറ്റ് സർക്കിൾ ഉള്ളതിനാൽ എന്നത് 0 മുതൽ 1 വരെ പോകും തീറ്റയുടെ ലിമിറ്റ് 0 മുതൽ 2π വരെയായിരിക്കും കൂടാതെ നമുക്ക് എന്ന ഇന്റഗ്രന്റ് ഉള്ളതിനാൽ അത് പോളാർ കോർഡിനേറ്റിൽ ആയിത്തീരും തുടർന്ന് നമ്മൾക്ക് r dr dθ ഉണ്ട് അതിനാൽ ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്നായി മാറുന്നു ഇത് വിലയിരുത്തുന്നത് വളരെ ലളിതമാണ് ഈ ലിമിറ്റ്റ്റുകൾക്ക് ഇത് വിലയിരുത്തുമ്പോൾ അതിൻറെ വാല്യൂ എന്നുവരും അവസാനത്തെ ഉദാഹരണം മറ്റൊരു പ്രധാന ഉദാഹരണം ആണ് ഇത് പോളാർ കോർഡിനേറ്റുകളുടെ സഹായത്തോടെ നമുക്ക് വിലയിരുത്താൻ കഴിയും ഇവിടെ നമുക്ക് to എന്ന ലിമിറ്റുകൾ ഉണ്ട് അതിനർത്ഥം ഇവിടെ വരെയുള്ള മൊത്തം ഫസ്റ്റ് ക്വാഡ്രന്റിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഈ റീജിയനിൽ r ന്റെയും യുടെയും കാര്യത്തിൽ 0 മുതൽ വരെയും r 0 മുതൽ വരെയും വ്യത്യാസപ്പെടുന്നു കൂടാതെ എന്നത് ആയി മാറുകയും തുടർന്ന് എന്നത് എന്ന് ആകുകയും ചെയ്യും അതിനാൽ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്നാകുന്നു നമ്മൾ പോളാർ കോർഡിനേറ്റ് ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ ലളിതമാണ് പക്ഷേ കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഞാൻ മുകളിൽ പറഞ്ഞ ഉദാഹരണത്തെ അടിസ്ഥാനമാക്കി ഞാൻ എന്ന് പരിഗണിക്കുകയാണെങ്കിൽ അത് ന് പകരം എന്നാക്കി മാറ്റിയിട്ടുള്ള എന്ന മറ്റൊരു ഇന്റഗ്രൽന് തുല്യമാണ് ഇവിടെ മൂല്യം ഒരു പ്രശ്നമല്ല അതു തുല്യമായിരിക്കും

ഈ രണ്ട് ഇന്റഗ്രലുകളുടെ പ്രോഡക്റ്റ് നമ്മൾ പരിഗണിക്കുന്നു അതായത് അതിൽനിന്നും എന്ന് എഴുതാം അതായത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു പോളാർ ഫോമുകളിൽ ഡബ്ൾ ഇന്റഗ്രലുകൾ വളരെ പ്രധാനമാണ് പ്രധാനമായും നമ്മൾ മുമ്പ് കണ്ടതുപോലുള്ള ചില ഇന്റഗ്രലുകൾ വളരെ എളുപ്പമായിത്തീരുന്നു പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്നതിലൂടെ നമുക്ക് എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയും ഇന്റഗ്രന്റ്നെയും ഡൊമെയ്നിനെയും അടിസ്ഥാനമാക്കി ചില ഉദാഹരണങ്ങളിലൂടെ നാം കണ്ട പോലെ കാർട്ടീഷ്യനോ പോളാർ ഫോമോ ഏത് ഫോമാണ് മികച്ചതെന്ന് നമുക്ക് എളുപ്പത്തിൽ തീരുമാനിക്കാം ലെക്ച്ചറുകൾ തയ്യാറാക്കാൻ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി